ഈ ക്ലാസിൽ പ്ലാസ്റ്റിക് സോണിന്റെ ഏകദേശ രൂപം പരിശോധിക്കാൻ ഞങ്ങൾ ശ്രമിക്കും തുടർന്ന് ഇർവിന്റെ മോഡൽ Irwin's model പ്ലാസ്റ്റിറ്റി വീക്ഷണകോണിൽ നിന്ന് ക്രാക്കിന്റെ നീളം കണ്ടെത്തും ഒരു പുനർവിതരണ കണക്കുകൂട്ടൽ നടത്താൻ അദ്ദേഹം ശ്രമിക്കും അത് ഞങ്ങൾ വിശദമായി നോക്കും എന്നാൽ പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതിക്കായിഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു മാതൃകയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ക്രാക്ക് ആക്സിസ്സിൽ പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത് എങ്ങനെ ലഭിക്കും നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രാക്ക് മൂർച്ചയുള്ളത് ആകുമ്പോൾ സിഗ്മ x ഉംസിഗ്മ y യും ഇരുവരും ഇതുപോലെ വ്യത്യാസപ്പെടുന്നു നിങ്ങളുടെ ട്രെസ്ക യിൽഡ് ക്രൈറ്റീരിയൻ കാരണം നിങ്ങളുടെ മറ്റ് സ്ട്രെസ് പൂജ്യമാണ് അത് നേരിട്ട് നൽകുന്ന മൂല്യം യിൽഡ്ഡിങ് നടക്കുമ്പോൾ ഉള്ള ഇൻഡിവിജുവൽ സ്ട്രെസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നാൽ എന്താണ് പ്ലെയിൻ സ്ട്രെയിനിൽ സിഗ്മ y സ്ട്രെസിന്റെ മൂല്യം എനിക്ക് പോയിസണിന്റെ റേഷിയോ Poisson's ratio 1 ബൈ 3 ആണെന്ന് കരുതുക പ്ലെയിൻ സ്ട്രെയിനിൽ പരമാവധി സ്ട്രെസ് വാല്യൂ യിൽഡ് സ്ട്രെങ്ത്ൻറെ മൂന്നിരട്ടിയായിരിക്കും അതിനാൽ ലളിതമായ മാതൃകയിൽ നമ്മൾ എന്തുചെയ്യും ഈ ഗ്രാഫിൽ നിന്ന് ആ പോയിന്റ് തിരഞ്ഞെടുത്ത് അത് ക്രാക്കിനു മുമ്പുള്ള പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത്ണെന്ന് പറയുക അതിനാൽ ഈ സമീപനം ലളിതവും നേരെയുമാണ് എന്നാൽ ഇത് കർശനമായി ശരിയല്ല അതിനാൽ നമുക്ക് ഇത് 3 സിഗ്മ ys ആയി പ്ലെയിൻ സ്ട്രെയിനിൽ ഉണ്ട് ഈ ദൂരത്തെ പ്ലാസ്റ്റിക് സോൺ ഡിസ്റ്റൻസ് എന്നും അതിന് rp എന്ന സിംബൽ ഉപയോഗിക്കാം എന്നാൽ പ്ലെയിൻ സ്ട്രെയ്നിൽ ഈ എക്സ്പ്രഷൻ എടുക്കാം 1 ബൈ 18 പൈ ക്ക് r p തുല്യമാണ് KI ബൈ സിഗ്മ ys വോൾ സ്ക്വായേർഡ് ഇത് ലഭ്യമാകുന്നത് nu 1 ബൈ 3 ക്ക് തുല്യമാകുമ്പോൾ ആണ് നിങ്ങൾക്ക് അറിയാം പ്ലെയിൻ സ്ട്രെസിൽ സിഗ്മ y സിഗ്മ ys ൽ എത്തുമ്പോൾ യിൽഡ് കണ്ടിഷൻ തൃപ്തി വരുന്നു പ്ലെയിൻ സ്ട്രെസിന്റെ കാര്യത്തിൽ ഇത് സിഗ്മ ys ആണ് പ്ലെയിൻ സ്ട്രെയിൻന്റെ കാര്യത്തിൽ nu 1 ബൈ 3 വരെ തുല്യമാകുമ്പോൾ അത് 3 മടങ്ങ് സിഗ്മ ys ആണ് സമീപനം വളരെ ലളിതവും നേരേചൊവ്വേ ഉള്ളതാണെങ്കിലും പ്ലെയിൻ സ്ട്രെസിന്റെ പ്ലാസ്റ്റിക് സോൺ ലെങ്ത് പ്ലെയിൻ സ്ട്രെയിനിൽ ഉള്ളതിനേക്കാൾ വളരെ വലുതാണെന്ന വളരെ പ്രധാനപ്പെട്ട ചിത്രപരമായ പ്രാതിനിധ്യം ഇത് വെളിപ്പെടുത്തുന്നു അതിനാൽ ഇത് ഒരു നേട്ടമാണ് നിങ്ങൾക്ക് ലളിതമായ ഒരു മോഡലിൽ നിന്ന് ലഭിക്കും മോഡ് I മോഡ് II ലോഡിംഗുകൾക്കായുള്ള പ്ലെയിൻ സ്ട്രെയിൻലും പ്ലെയിൻ സ്ട്രെസിലും ഉള്ള ഏകദേശ പ്ലാസ്റ്റിക് സോൺ രൂപങ്ങൾ ക്രാക്ക് ലെങ്ത്നു മുന്നിനിൽ സംഭവിക്കുന്നതെന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു തീറ്റയുടെ ഒരു ഫംഗ്ഷനായി ഇത് പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം ലഭിക്കും വാസ്തവത്തിൽ ഞാൻ വിദ്യാർത്ഥികളോട് അവസാന ക്ലാസ്സിലെ ആവശ്യപ്പെട്ടിരുന്നു മോഡ് I മോഡ് II മോഡ് III എന്നിവയ്ക്കായി ഇത് പ്ലോട്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും ഇത്ചെയ്തിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ നമുക്ക് ആ രൂപങ്ങൾ നോക്കാം ആകൃതിയുടെ ഏകദേശ രൂപം ഓർഡർ ചെയ്യാൻ ഇതുപോലുള്ള ഒരു സമീപനം ആദ്യ നൽകുന്നു കാരണം നമ്മൾ ഒരു ലോഡ് റിഡിസ്ട്രിബൂഷൻ ശ്രമവും നടത്തുന്നില്ല പ്ലെയിൻ സ്ട്രെസിന്റെ കാര്യത്തിൽ നമ്മൾ ഇതുപോലെ മോഹർ സർക്കിളിലേക്ക് Mohr's circle നോക്കുന്നു എനിക്ക് സിഗ്മ 1 ഉണ്ട് അത് നിങ്ങളുടെ സിഗ്മ y ഉം സിഗ്മ 2 ഉം നിങ്ങളുടെ സിഗ്മ x ഉം സിഗ്മ 3 പൂജ്യവുമാണ് ഇത് നിങ്ങൾ പ്ലെയിൻ സ്ട്രെസിന്റെ കാര്യത്തിൽ തിരിച്ചറിയണം നിങ്ങൾ ശരിക്കും നോക്കുന്നത് ക്രാക്ക് ടിപ്പ് മൂർച്ച ഇല്ലാത്തപ്പോൾ ഉള്ള ഒരു കേസാണ് പ്ലാസ്റ്റിക് സോണിലേക്ക് നിങ്ങൾ നോക്കുന്ന നിമിഷം ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതായി തിരിച്ചറിയേണ്ടതുണ്ട് ഇത് കണക്കിലെടുക്കുമ്പോൾ ഫ്രീ സർഫേസ് ഉള്ളതിനാൽ സിഗ്മ x ക്രാക്ക് ടിപ്പിൽ പൂജ്യമായിരിക്കും ഇത് ക്രാക്ക് ടിപ്പിൽ നിന്ന് അൽപ്പം അകലെ ആകുമ്പോൾ പരമാവധി എത്തുന്നു അതിനാൽ ഇതുപോലെയാകും ഒരു സിഗ്മ x വ്യതിയാനം നിങ്ങളുടെ സിഗ്മ y വ്യതിയാനം ഇതുപോലെയാകും ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് സിഗ്മ Y യും സിഗ്മ x ഉം രണ്ടും പോസിറ്റീവ് ആണ് നിങ്ങൾ തിരിച്ചറിയണം സിഗ്മ z പൂജ്യം എന്നും അല്ലെങ്കിൽ സിഗ്മ 3 പൂജ്യം എന്നും നിങ്ങളുടെ സിഗ്മ y നിർണ്ണയിക്കുന്നത് യിൽഡ് ആണ് ഇത് ആണ് മോഹറിന്റെ സർക്കിളിൽ Mohr's circle ചിത്രീകരിച്ചിരിക്കുന്നത് പൂജ്യ മൂല്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് അവഗണിക്കരുത് അല്ലെങ്കിൽ സിഗ്മ x സിഗ്മ y എന്നിവ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഷിയർ സ്ട്രെസ് ഇത് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റായ തീരുമാനമെടുക്കും സിഗ്മ y ഇതും സിഗ്മ x ഇതും ആയിരിക്കും നിങ്ങൾ ഇത് എടുക്കരുത് നിങ്ങൾ തിരിച്ചറിയണം മറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ മൂല്യം പൂജ്യം ആണെന്ന് പരമാവധി ഈ മൂല്യം ആണ് മാക്സിമം ഷിയർ സ്ട്രെസ് നിങ്ങൾ Rp യുടെ ഈ എക്സ്സ്പ്രെഷൻ തീറ്റയുടെ ഒരു ഫംഗ്ഷനായി എഴുതുമ്പോൾ ഇതുപോലുള്ള ഒരു ഫോം എടുക്കുന്നു നിങ്ങൾ ട്രെസ്കയിലേക്ക് പോകുമ്പോൾ എക്സ്സ്പ്രെഷൻ വ്യത്യസ്തമാണ് നിങ്ങൾ ഈ എക്സ്സ്പ്രെഷൻനെ ഒരു പോളാർ പ്ലോട്ടായി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ തീറ്റ വ്യത്യാസപ്പെടുത്തിനെ അടയാളപ്പെടുത്താൻ r മൂല്യങ്ങൾക്ക് കഴിയും കൂടാതെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് സോണിന്റെ ഏകദേശ രൂപം നേടാൻ ക്രാക്ക് ടിപ്പിൽ നേടാൻ കഴിയും എന്താണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നോക്കൂന്നത് പ്ലെയിൻ സ്ട്രെസ് സാഹചര്യത്തിനും അതുപോലെ പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിനും ആണ് പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യത്തിനായി rp യുടെ എക്സ്പ്രഷൻ 1 ബൈ 4 പൈ KI ഗുണനം സിഗ്മ ys ഹോൾ സ്ക്വയേർഡ് ഗുണിച്ചാൽ 3 ബൈ 2 nu സൈൻ സ്ക്വയേർഡ് തീറ്റയും 1 മൈനസ് 2 ഹോൾ സ്ക്വയേർഡ് 1 പ്ലസ് കോസ് തീറ്റ യാൽ ഗുണിക്കുന്നു ഇത് വോൺ മിസെസിനുള്ളതാണ് ട്രെസ്കയെ സംബന്ധിച്ചിടത്തോളം തീറ്റയുടെ വ്യത്യസ്ത വ്യാപ്തിക്കായി എക്സ്പ്രെഷൻ നൽകിയിരിക്കുന്നു അതിനാൽ നമുക്ക് ഇത് 1 ബൈ 2 പൈ KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വയേർഡ് കോസ് സ്ക്വയർ തീറ്റ 2 കൊണ്ട് ഗുണിച്ചാൽ 1 മൈനസ് 2 nu പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയേർഡ് 9 ഡിഗ്രിയിൽ കൂടുതലുള്ളതും nu 1 ബൈ 3 വരെ തുല്യമായതുമായ തീറ്റയ്ക്ക് നിങ്ങൾ ഈ എക്സ്പ്രെഷൻ ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് 1 ബൈ 2 പൈ യോട് KI ഗുണിച്ച സിഗ്മ ys ഹോൾ സ്ക്വയേർഡ് സൈൻ സ്ക്വയേർഡ് തീറ്റ വരെയാണ് അതിനാൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ ഇവയെ പദപ്രയോഗങ്ങളായി കാണുന്നതിനു പകരം നിങ്ങൾ അവ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുതരം ഉൾക്കാഴ്ച നൽകുന്നു നമ്മൾ എന്തുചെയ്യും നമ്മൾ മോഡ്സമാനമായ ഒരു വ്യായാമം മോഡ് I മോഡ് II മോഡ് III എന്നിവയ്ക്കായി ചെയ്യുകയും എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതികൾ എന്നു നോക്കുകയും ചെയ്യും എന്നാൽ ഇവ ഏകദേശ രൂപങ്ങളാണെന്ന് നിങ്ങളുടെ മനസ്സിന്റെ പിന്നിൽ സൂക്ഷിക്കണം എന്നാൽ പോളാർ പ്ലോട്ട്കൾ ഇങ്ങനെ വരയ്ക്കാം അതിനാൽ ഇവിടെ ചെയ്യുന്നത് ഇതാണ് ക്രാക്ക് ടിപ്പ് എനിക്ക് വിവിധ കോണുകളിൽ റേഡിയൽ ലൈനുകൾ വരച്ചിട്ടുണ്ട് ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കുക തീറ്റയുടെ പ്രവർത്തനമായി പ്ലാസ്റ്റിക് സോൺ ലെങ്ങ്തിനെ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട് rp അതിനാൽ ഇത് അടയാളപ്പെടുത്തി അവ ഒരു വക്രമായി ചേരുക ട്രെസ്ക യിൽഡ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് പ്ലെയിൻ സ്ട്രെസ് അവസ്ഥയ്ക്ക് ഇത് ലഭിക്കും നമ്മൾ ഇതിനകം തന്നെ ഈ എക്സ്പ്രെഷൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഈ രേഖാചിത്രം വരയ്ക്കുക നിങ്ങൾ മുൻപും എഴുതിട്ടുണ്ട് ഈ എക്സ്പ്രെഷൻ പ്ലെയിൻ സ്ട്രെയിനു വേണ്ടിയുള്ളതാണ് ഈ എക്സ്പ്രെഷൻ നിങ്ങൾ ഇതിനകം എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേയൊരു കാര്യം നിങ്ങൾ ഈ രേഖാചിത്രങ്ങൾ വരയ്ക്കണം അതിനാൽ എനിക്ക് പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം വളരെ വലുതായ പ്ലെയിൻ സ്ട്രെയിൻ ഉണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക് സോണിന്റെ പ്ലെയിൻ സ്ട്രെയിനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ലോബ് ഉണ്ട് ഈ നീലയും തുടർച്ചയായതുമായ ചുവന്ന വര മാത്രം നിങ്ങൾ വരയ്ക്കുക ഡോട്ട് ഇട്ട വര വരയ്ക്കേണ്ടതില്ല ആകൃതി ഇങ്ങനെയാണ് ഇത് എങ്ങനെ കാണപ്പെടുന്നു നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐസോക്രോമാറ്റിക്സിന് സമാനമായ ഒന്ന് അതെ അത് നേരെയാണെങ്കിലും മുന്നോട്ട് ചരിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ക്രാക്ക് ആക്സിസ്സിൽ ഒരു പരിധിവരെ പ്ലാസ്റ്റിക് സോൺ ലഭ്യമാണ് ഇത് ഏകദേശ ആകൃതിയാണെങ്കിലും പ്ലെയിൻ സ്ട്രെയിനിന്റെകാര്യത്തിൽ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം വളരെ ചെറുതാണെന്നും പ്ലെയിൻ സ്ട്രെസിന്റെ കാര്യത്തിൽ ഇത് വളരെ വലുതാണെന്നും ഇത് ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്കറിയാമോ നമ്മൾ യിൽഡ് ക്രൈറ്റീരിയ മാറ്റുമ്പോൾ ആകൃതിയിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും ഇത് ഒഴിവാക്കാനാവില്ല ട്രെസ്ക യിൽഡ് ക്രൈറ്റീരിയക്കായി നമുക്ക് ഇത് ലഭിച്ചു ഞാൻ വോൺ മിസസ് ക്രൈറ്റീരിയ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് സോൺ രൂപങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നോക്കാം ഇത് മോഡ് 1 സാഹചര്യത്തിന് ആണ് ഇത് പ്ലെയിൻ സ്ട്രെസിന് വേണ്ടിയാണ് നമുക്ക് എക്സ്പ്രെഷനുകളുണ്ട് അവ എഴുതേണ്ടതില്ല പക്ഷേ സ്കെച്ച് വരയ്ക്കുക ഇത് സ്ട്രെയിൻനുള്ളതാണ് നിങ്ങൾ ഇത് ഇതിനകം എഴുതിയ പദപ്രയോഗം തന്നെ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും വളരെ ചെറുതായ ഒരു പ്ലെയിൻ സ്ട്രെയിൻ പ്ലാസ്റ്റിക് സോൺ വിഷ്വൽ പ്രാതിനിധ്യം ഉണ്ട് ഇത് നിങ്ങളുടെ ഐസോക്രോമാറ്റിക്സിന്റെ ആകൃതിയുമായി വളരെ സാമ്യമുള്ളതാണ് ഇവ രണ്ട് തമ്മിൽ സമാനതകൾ ഉണ്ട് അതിനാൽ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക നമ്മൾ മോഡ് II നും അതുപോലെ മോഡ് III നും സമാനമായ പ്ലോട്ടുകൾ വരയ്ക്കുന്നു ഞാൻ മോഡ് II സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ രണ്ട് യിൽഡ് ക്രൈറ്റീരിയ്ക്കും ഇത് വരയ്ക്കുന്നില്ല വോൺ മിസ്സസ് യിൽഡ് ക്രൈറ്റീരിയ മാനദണ്ഡങ്ങൾക്കായി ഞാൻ ഇത് വരയ്ക്കും സോണുകൾ ഇതുപോലെ ദൃശ്യമാകുന്നത് ഇങ്ങനെയാണ് ഞാൻ കരുതുന്നു നമ്മൾ ഈ എക്സ്പ്രെഷൻ എഴുതേണ്ടതുണ്ടെന്ന് rp 1 ബൈ 8 പൈ KII സ്ക്വയറായി ഹരിച്ചാൽ സിഗ്മ സ്ക്വയേർഡ് ys കൊണ്ട് 14 മൈനസ് 9 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 കോസ് തീറ്റ അവർ അതിനെ മാറ്റുമ്പോൾ പ്ലെയിൻ സ്ട്രെയിൻ അവസ്ഥയിലേക്ക് എക്സ്പ്രഷൻ ഇതുപോലെയായി മാറുന്നു rp 1 ബൈ 8 പൈ വരെ തുല്യമാണ് KII സ്ക്വയർ സിഗ്മ ys സ്ക്വയറുകളാൽ വർഗ്ഗീകരിച്ച് 12 പ്ലസ് 2 കൊണ്ട് 1 മൈനസ് കോസ് തീറ്റയെ 1 മൈനസ് 2 nu ഹോൾ സ്ക്വയേർഡ് whole squared കൊണ്ട് ഗുണിക്കുന്നു മൈനസ് 9 സൈൻ സ്ക്വയേർഡ് തീറ്റ നോക്കൂ ഞാൻ ജാഗ്രത പാലിക്കട്ടെ നിങ്ങൾക്ക് സങ്കീർണ്ണമായ ഒരു എക്സ്പ്രെഷൻ ഉണ്ട് സങ്കീർണ്ണമായ ഒരു എക്സ്പ്രെഷൻ കാണുമ്പോൾ പലതവണ ഇത് ശരിയായ പദപ്രയോഗമാണെന്ന് നിങ്ങൾ അറ്റാച്ചു ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു മാനസിക തടയൽ ഉണ്ടാകരുത് പ്ലാസ്റ്റിക് സോൺ ആകൃതിയുടെ വളരെ അപരിഷ്കൃതമായ പ്രാതിനിധ്യമാണിത് ഇർവിന്റെ കണക്കുകൂട്ടൽ രീതി പരിശോധിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് വിലമതിക്കാനാകൂ അവിടെ ലോഡ് പുനർവിതരണം ചെയ്യുന്നതും അദ്ദേഹം പരിഗണിക്കുന്നു അതും ക്രാക്ക് ആക്സിസ്സിൽ മാത്രം അത് തന്നെ ഒരു വലിയ എക്സ്ർസൈസ് ആണ് അതിനാൽ നിങ്ങൾ പരീക്ഷണാത്മക രീതികളിലേക്കോ സംഖ്യാ സമ്പൂർണ്ണ സാങ്കേതികതകളിലേക്കോ പോകുന്നില്ലെങ്കിൽ ഒരു പൊതുവായ സാഹചര്യത്തിന്റെ ആകൃതി നിങ്ങൾക്ക് നേടാനാവില്ല എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പ്ലോട്ടുകൾ പ്ലെയിൻ സ്ട്രെസ്നും പ്ലെയിൻ സ്ട്രെയിൻനും ആപേക്ഷിക വലുപ്പങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിലതരം ധാരണകൾ നൽകുന്നു ഇതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ആകൃതി എങ്ങനെ കാണപ്പെടും ഞാൻ ഇതിനകം നിങ്ങൾക്ക് മോഡ് II ഐസോക്രോമാറ്റിക്സ് കാണിച്ചു തന്നു മോഡ് II ഐസോക്രോമാറ്റിക്സിന് സമാനമാണ് അവ അതിനാൽ ആകൃതികളെ താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണിത് മോഡ് II ന്റെ കാര്യത്തിൽ പ്ലെയിൻ സ്ട്രെസ്നും പ്ലെയിൻ സ്ട്രെയിൻനും തമ്മിലുള്ള വ്യത്യാസം അത്ര പ്രധാനമല്ല മോഡ് I ന്റെ കാര്യത്തിൽ രണ്ട് കേസുകൾക്കും വലുപ്പങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു നിങ്ങൾ വരയ്ക്കേണ്ടത് എന്തെന്നാൽ ആകാരം മാത്രം വരയ്ക്കുക എന്നതാണ് ഈ പോളാർ പ്ലോട്ട് വരച്ച രീതിയിൽ നിങ്ങൾ വരയ്ക്കേണ്ടതില്ല ഈ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസിലാക്കാൻ സഹായിക്കുന്നതിനാണിത് തീറ്റയുടെ വിവിധ മൂല്യങ്ങൾക്കായി നിങ്ങൾ നിരവധി പോയിന്റുകൾ ശേഖരിക്കുകയും അവ സുഗമമായ വക്രമായി ചേർക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഉദ്ദേശ്യത്തിനായി നിങ്ങൾ ഈ രണ്ട് ആകൃതികൾ വരയ്ക്കുക മോഡ് III ലെ പ്ലാസ്റ്റിക് സോൺ ആകാരം ഇപ്പോൾ എന്താണ് മോഡ് III ലെ ആകൃതിയുടെ തരം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ വളരെ ലളിതമായ ഒരു ഗ്രാഫ് കണ്ടെത്തും നിങ്ങൾക്ക് rp 3 ബൈ 2 പൈ i വരെ തുല്യമാണ് അതിനെ KIII സ്ക്വയർ സിഗ്മ ys സ്ക്വയറിനാൽ ഹരിക്കുന്നു കാണുക മോഡ് III യുടെ ലോഡിംഗിന്റെ കാര്യത്തിൽ മാത്രം പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി വൃത്തമാണ് മറ്റ് സന്ദർഭങ്ങളിൽ ആകൃതി വളരെ വ്യത്യസ്തമാണ് പല പുസ്തകങ്ങളിലും നിങ്ങൾ പ്ലാസ്റ്റിക് സോണിൻറെ വിഷയത്തിലൂടെ കടന്നുപോകുമ്പോഴെല്ലാം അവർ ഒരു സർക്കിൾ ഇടും ഇത്തരത്തിലുള്ള ഉപയോഗം നിലവിൽ വന്നത് മോഡ് III ന്റെ കാര്യത്തിൽ വൃത്താകൃതിയിലുള്ള ആകൃതി അവർ നോക്കിയതുകൊണ്ടാണ് ഇത് മോഡ് I നും എക്സ്ട്രാപോലേറ്റ് ചെയ്തിരിക്കുന്നു അത് കർശനമായി ശരിയല്ല നിങ്ങൾ യഥാർത്ഥ രൂപം നോക്കേണ്ടതുണ്ട് പരീക്ഷണങ്ങളിൽ കാണുന്നതോ സങ്കീർണ്ണമായ സംഖ്യാ വിശകലനം നടത്തിയതോ ആയ യഥാർത്ഥ ആകൃതിയും നമുക്ക് നോക്കാം ഈ കേസിന്റെ ഫ്രിഞ്ചസ് നമ്മൾ കണ്ടിട്ടുണ്ടോ മോഡ് III ലോഡിംഗ് സാഹചര്യത്തിന് ഫോട്ടോലാസ്റ്റിറ്റി ബാധകമല്ല ഇത് പ്ലെയിൻ ലോഡിംഗ് ആയതിന്നാൽ ഫോട്ടോ ഇലാസ്റ്റിറ്റിക്ക് ബാധകമല്ല ഇൻ പ്ലെയിൻ ലോഡിംഗിന് മാത്രം നിങ്ങൾ ചെയ്യേണ്ട അവസ്ഥയിലായിരിക്കും അതിനാൽ മോഡ് I നും മോഡ് II നും കൂടാതെ മോഡ് I മോഡ് II എന്നിവയുടെ സംയോജനത്തിന്നും മാത്രമേ ഫോട്ടോലാസ്റ്റിറ്റി ബാധകമാകൂ ഫോട്ടോലാസ്റ്റിക് വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് മോഡ് III യുടെ പ്രശ്നം വിശകലനം ചെയ്യാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഐസോക്രോമാറ്റിക്സിന്റെ ആകൃതി കാണാൻ സാധ്യമായിട്ടില്ല എന്നിരുന്നാലും നിങ്ങൾ ഒരു സർക്കിൾ കാണുമ്പോൾ ഓർമ്മിക്കേണ്ടത് പ്ലാസ്റ്റിക് സോൺ വൃത്താകൃതിയിൽ കാണപ്പെടുന്നത് മോഡ് III ന്റെ കാര്യത്തിൽ മാത്രം ആണ് പല പുസ്തകങ്ങളും മോഡ് I ന്റെ പ്ലാസ്റ്റിക് സോൺ ഒരു സർക്കിളായി മാത്രം ഇടുന്നു ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് സോൺ മാതൃകയാക്കാൻ ഫ്രാക്ചർ കാൽക്കുലേഷനിനായി നിർവചിക്കുന്നതിലൂടെ ഫലപ്രദമായ ക്രാക്ക് ലെങ്ത് എന്താണ് മുമ്പത്തെ വിശകലനം അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള വസ്തുത പ്ലെയിൻ സ്ട്രെസിൻറെ പ്ലാസ്റ്റിക് സോൺ പ്ലെയിൻ സ്ട്രെയിൻറെ പ്ലാസ്റ്റിക് സോൺനെകാൾ വളരെ വലുതാണ് എന്നിരുന്നാലും സമീപനം തികച്ചും അപരിഷ്കൃതമാണ് ഇൻക്രിമെന്റൽ ക്രാക്ക് ലെങ്ത് യിൽഡ് സ്ട്രെസിന്റെ മുകളിലുള്ള സ്ട്രെസുകളുടെ പുനർവിതരണത്തെ അടിസ്ഥാനമാക്കി നിർണ്ണയിക്കേണ്ടതുണ്ട് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ക്രാക്ക് ലെങ്ത്ന്റെ വർദ്ധനവ് കണക്കാക്കുന്നത് തെറ്റാണ് നിങ്ങൾ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ രണ്ട് മോഡലുകൾ നിലവിലുണ്ട് ഒരു മോഡൽ ഇർവിൻ നിർദ്ദേശിക്കുകയും മറ്റൊരു മോഡൽ ഡഗ്ഡേൽ നിർദ്ദേശിക്കുകയും ചെയ്തു നോക്കൂ നിങ്ങൾ വ്യത്യാസം കാണേണ്ടി വരും ഇത് ഒരു മാതൃക മാത്രമാണ് അത് ഒരു സിദ്ധാന്തമല്ല പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് അതിനാൽ അവർ ഈ രീതിയിൽ ഇതിനെ മോഡലാക്കി ചില നിയന്ത്രണങ്ങളിൽ ഇത് സാധുവാണ് നിങ്ങൾ അത് ആ വഴിക്ക് എടുക്കണം ഇർവിന്റെ മോഡൽ പ്രശ്നം സങ്കീർണ്ണമായതിനാൽ നിങ്ങൾക്ക് ഇർവിൻ ഡഗ്ഡെയിൽ മോഡലുകളിൽ നിന്നും ലഭിക്കുന്ന ക്രാക്ക് ലെങ്ങ്തിന്റെ മൂല്യം വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങൾ അത് മുൻകൂട്ടി കാണണം അവ സമാനമാകില്ല അവ വ്യത്യസ്തമായിരിക്കും ഇർവിൻ എന്താണ് വിശകലനം ചെയ്തത് നിങ്ങൾ ആനിമേഷൻ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം ഇത് എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനമായി കണക്കാക്കപ്പെടുന്നു കാരണം നമ്മൾ ലോഡ്ഡിൻറെ ഒരുതരം പുനർവിതരണം ചെയ്യുന്നു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ മൂലം ലോഡിന്റെ പുനർവിതരണം പരിഗണിക്കുന്ന ഒരു ലളിതമായ മാതൃക അദ്ദേഹം തീർച്ചയായും അവതരിപ്പിച്ചു മോഡൽ എങ്ങനെ വികസിപ്പിച്ചെടുത്തു നിങ്ങൾ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക എനിക്ക് ഒരു ക്രാക്ക് ടിപ്പ് ഉണ്ട് നിങ്ങൾക്ക് x ആക്സിസിൽ x ദൂരവും പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത് rp യും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് y ആക്സിസിൽ സിഗ്മ ys 2 സിഗ്മ ys 3 സിഗ്മ ys എന്ന സ്ട്രെസ്സുകൾ ഉണ്ട് ലളിതമായ മോഡലിൽ എന്താണ് ചെയ്തത് ലളിതമായ മോഡലിൽ നിങ്ങൾ ഇത് അടയാളപ്പെടുത്തി പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പമാണെന്നും എന്നാൽ ഈ മെറ്റീരിയൽ ഇതുപോലുള്ള ഒരു ലോഡിനെ പിന്തുണയ്ക്കുന്നുവെന്നും പറഞ്ഞു ലോഡ് എവിടെ പോകും നിങ്ങൾക്ക് വെറുതെ തട്ടിമാറ്റാൻ കഴിയില്ല നിങ്ങൾ ബോർഡിൽ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മായ്ക്കാനും തുടർന്ന് ഗ്രാഫ് ഇതുപോലെ ചിന്തിക്കാനാകുമെന്ന് കാണിക്കാനും കഴിയും എന്നാൽ മെറ്റീരിയലിൽ എന്ത് സംഭവിക്കും നിങ്ങൾ പറയുമ്പോൾ സ്ട്രെസ്സുകൾ സിഗ്മ ys ന്റെ ഒരു മൂല്യത്തിലെത്തുമ്പോൾ ചുരുക്കത്തിൽ ലോഡ് പുനർവിതരണം ചെയ്യുന്നതിനാൽ പ്ലാസ്റ്റിക് സോണിന്റെ വ്യാപ്തി കൂടുതൽ നീണ്ടുനിൽക്കുമെന്ന് ഇർവിൻ വാദിച്ചു ആനിമേഷൻ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുക ആ ഭൌതികശാസ്ത്രം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് ഉണ്ട് അയൽവസ്തുക്കൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനാൽ ക്രാക്ക് ടിപ്പിന് മുമ്പായി നിങ്ങൾക്ക് ഒരു വലിയ പ്ലാസ്റ്റിക് സോൺ ഉണ്ടാകും എ 2 എ 1 എന്ന് അടയാളപ്പെടുത്തിയ പ്രദേശങ്ങൾ തുല്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഭൌതികശാസ്ത്രം വ്യക്തമാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആനിമേഷൻ വീണ്ടും ചെയ്യാം നിങ്ങൾ ആനിമേഷൻ നിരീക്ഷിക്കുക ലളിതമായ ഒരു മാതൃക ഇർവിൻ അവതരിപ്പിച്ചു മോഡൽ ഇതുപോലെയാണ് ഇതുപോലെ കാണിച്ചിരിക്കുന്ന സ്ട്രെസ്സുകൾ നിങ്ങൾക്കുണ്ട് കാരണം ലളിതമായ മോഡലിൽ നമ്മൾ ചെയ്തതു പോലെ ഇത് വെട്ടിക്കളയാൻ കഴിയില്ലലോ ഇതിന് അയൽ വസ്തുക്കൾ പിന്തുണയ്ക്കേണ്ടതുണ്ട് അതിനാൽ യിൽഡ് സ്ട്രെസ് കാരണം ഈ ലോഡിംഗിന് വിധേയമായ ഈ സോണിന് പകരം അത് വ്യാപിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യും എ 2 വിസ്തീർണ്ണം എ 1 ന് തുല്യമായ രീതിയിലാണ് നമ്മൾ ഈ വിപുലീകരണം കണ്ടെത്തുന്നത് അതിനാൽ കാൽക്കുലേഷൻന്റെ ഭാഗമായി ഡെൽറ്റ എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തണം അതുപോലെ ലാംഡ എന്താണ് മുഴുവൻ നീളവും പ്ലാസ്റ്റിക് സോൺ ലെങ്താണ് ഇത് വളരെ ലളിതമാണ് നിങ്ങൾ ഭൌതികശാസ്ത്രത്തെ പിന്തുടർന്ന് ഗണിതത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റയ്ക്കും ലാംഡയ്ക്കും എക്സ്പ്രഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ലളിതമായ മാതൃകയിൽ ചെയ്യാത്ത ലോഡിന്റെ പുനർവിതരണം നമുക്ക് നോക്കാൻ ശ്രമിക്കാം ഇത് തന്നെ ക്രാക്ക് ആക്സിസ്സിൽ ഒരു വലിയ സർക്കസ് ആണെന്ന് സങ്കൽപ്പിക്കുക പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പുനർവിതരണം ഓരോ കോണിലും നോക്കണം അത് നിങ്ങളുടെ കൈ കണക്കുകൂട്ടലിൽ നിന്ന് സാധ്യമല്ല ഇത് ചെയ്യുന്നതിന് നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ ആശ്രയിക്കേണ്ടി വരും പ്ലെയിൻ സ്ട്രെസിലും പ്ലെയിൻ സ്ട്രെയ്നിലും ഉള്ള പ്ലാസ്റ്റിക് സോണിന്റെ ദൈർഘ്യം നമ്മുടെ ലളിതമായ സമീപനത്തിൽ നിന്ന് ചർച്ച ആരംഭിക്കാം ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് പുനർവിതരണം ചെയ്യേണ്ട സ്ട്രെസ് എന്താണ് യിൽഡ് സ്ട്രെസ്നു മുകളിലുള്ള പുനർവിതരണം ചെയ്യേണ്ട മേഖലയാണിത് അതിനാൽ എന്താണ് ഈ ലാംഡ എന്ന് അറിയണം ഈ കണക്കുകൂട്ടൽ നമ്മുടെ ലളിതമായ കണക്കുകൂട്ടലിന് സമാനമാണ് നമ്മുടെ KI ബൈ റൂട്ട് 2 പൈ ലാംഡ എന്ന് പറയുന്നത് സിഗ്മ ys ന് തുല്യമാണ് അങ്ങനെയാണ് നമ്മൾ ഈ പോയിന്റ് കണ്ടെത്തുന്നത് അതിനാൽ ലാംഡ ആസ്പദമാക്കി KI എന്താണെന്നതിന്റെ നിർവചനം ഇത് നൽകുന്നു അത് പിന്നീട് ഡെറിവേഷനിൽ നമ്മൾ ഉപയോഗിക്കും ഇത് നിങ്ങളുടെ ലളിതമായ സമീപനവുമായി വളരെ സാമ്യമുള്ളതാണ് ഇതിൽ നിന്ന് ലാംഡ എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും ലാംഡ എന്നത് 1 ബൈ 2 പൈ ആയി KI കൊണ്ട് ഗുണിച്ച സിഗ്മ ys ഹോൾ സ്ക്വാർഡ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത് എന്തെന്നാൽ ക്രാക്ക് ആക്സിസ്നൊപ്പം പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത് കണക്കാക്കുന്നത് കർശനമായി ശരിയല്ല അതിനാൽ നമ്മൾ ലോഡ് പുനർവിതരണം ചെയ്ത് കണക്കുകൂട്ടൽ നടത്തണം നമ്മൾ ഇതിനകം സ്കെച്ച് കണ്ടു ആ സ്കെച്ചിനെ അടിസ്ഥാനമാക്കിഎനിക്ക് ഒരു പ്രസ്താവന നടത്താൻ കഴിയും അതായത് തിരഞ്ഞെടുത്ത ലെങ്ത് ഡെൽറ്റ പോയിന്റ് P ന് അപ്പുറത്തേക്ക് എടുക്കാത്ത ലെങ്ത് ലാംഡക്ക് തുല്യമാണ് അത് ലെങ്ത് ഡെൽറ്റയിൽ നില നിൽക്കുന്നുവെന്നതാണ് എന്താണ് ലെങ്ത് ലാംഡയിൽ നില നിർത്താത്ത ലോഡ് ഏരിയ എ 1 ലാംഡ ലെങ്ത്ൽ നിലനിൽക്കില്ല എന്തുകൊണ്ട് ഞാൻ തിക്നെസ്സ് B യുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് എക്സ്പ്രഷൻ ഇതുപോലെ എഴുതിയിരിക്കുന്നു ഇത് ഇന്റഗ്രൽ ഡെൽറ്റ ടു ലാംഡ സിഗ്മ yy dx മൈനസ് സിഗ്മ ys ലാംഡ കാണുക ഇത് സ്ലൈഡിൽ എഴുതിയിരിക്കുന്നതിനാൽ ഞാൻ പലതവണ പറയുന്നു നിങ്ങൾ ജാഗ്രത പാലിക്കണം ശരിയാണോ ലിമിറ്റ്സ് ശരിയായി നൽകിയിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമ്മൾക്ക് ലാംഡയിലേക്ക് സിഗ്മ ys ഉള്ളത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അത് ഈ പ്രദേശത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇത് ഡെൽറ്റ മുതൽ ലാംഡയിലല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നു നിങ്ങൾ ഇത് കണക്കാക്കുകയാണ് അതിനാൽ നിങ്ങൾ ഇത് 0 മുതൽ ലാംഡ വരെ ചെയ്യണം കാരണം ഈ പ്രദേശം കണ്ടെത്താനാണ് എന്റെ താൽപര്യം ആ പ്രദേശത്തിന് ഇത് 0 മുതൽ ലാംഡയിലേക്ക് പോകുന്നു അതാണ് നമ്മൾ നോക്കുന്നത് അതിനാൽ നമുക്ക് എ 1 എന്നതിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഡെൽറ്റയുടെ ലെങ്ത്ൽ നിലനിൽക്കുന്ന ലോഡ് വിസ്തീർണ്ണം എ 2 ന്റെ B മടങ്ങ് ആണ് അതിനാൽ എനിക്ക് ഇത് ഡെൽറ്റയെ B ടൈംസ് ഗുണിച്ച സിഗ്മ ys ആയി ഉണ്ട് നോക്കൂ പ്രതീകാത്മകതയെക്കുറിച്ച് ഇവിടെ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ ഡെറിവേഷനിൽ ഞാൻ ഡെൽറ്റയെ യഥാർത്ഥ ക്രാക്കിന്റെ വിപുലീകരണമായി ഒരു സാങ്കൽപ്പിക ലെങ്ത് ആയിട്ടാണ് ഉപയോഗിച്ചത് എന്റെ ഭാവിയിലെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും ഞാൻ ക്രാക്കിന്റെ നീളം എ പ്ലസ് ഡെൽറ്റയായി ഉപയോഗിക്കും നിങ്ങൾ EPFMലേക്ക് പോകുമ്പോൾ വിപുലമായ പഠനങ്ങളുടെ പ്രതീകമായി ഡെൽറ്റ ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റിനായി ഉപയോഗിക്കുന്നു ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ലോഡിംഗ് ചെയ്യുമ്പോൾ ക്രാക്ക് എങ്ങനെ തുറക്കുന്നു എന്നതിനെക്കുറിച്ച് ക്രാക്ക് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് സംസാരിക്കുന്നു അത് ഒരു അർദ്ധവൃത്തം പോലെ തുറക്കുന്നതായി നമ്മൾ കണ്ടു എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനത്തിൽ ആളുകൾ ഇർവിന്റെ മോഡലിൽ നിന്നോ ഡഗ്ഡെയ്ലിന്റെ മോഡലിൽ നിന്നോ വരുന്ന ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നിർവചിക്കുന്നത് നമ്മൾ ക്രാക്ക് ലെങ്ത് എ പ്ലസ് ഡെൽറ്റയായി എടുക്കുന്നു അതിനാൽനമുക്ക് ആ സന്ദർഭത്തിൽ CTOD ക്കു ഡെൽറ്റ ഉപയോഗിക്കാം അതിനാൽ സന്ദർഭത്തെ ആശ്രയിച്ച് ഡെൽറ്റ ചിഹ്നത്തിലേക്ക് ഒരു അർത്ഥം ചേർക്കാം നമ്മൾ പ്ലെയിൻ സ്ട്രെസ്സിന്റെ സാഹചര്യം ആണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ രണ്ടും ഇക്വറ്റ് ചെയ്യണം നിങ്ങളുടെ സൌകര്യാർത്ഥം ഈ ആനിമേഷൻ ഇവിടെ ആവർത്തിക്കുന്നു അതിനാൽ സിഗ്മ ys ഡെൽറ്റയെ ഗുണിച്ചാൽ ഇന്റഗ്രൽ 0 മുതൽ ലാംഡ സിഗ്മ yy dx മൈനസ് സിഗ്മ ys ലാംഡ സിഗ്മ yy എനിക്ക് മാറ്റിസ്ഥാപിക്കാൻ കഴിയും എങ്ങനെ എന്നാൽ KI ബൈ റൂട്ട് 2 പൈ x dx KI by root 2 pi xdx കൊണ്ട് ഗുണിക്കുക ഈ എക്സ്പ്രെഷനിൽ ഉള്ളത് മൈനസ് സിഗ്മ ys ലാംഡാ ആണ് ലാംഡയുടെ കാര്യത്തിൽ KI എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് ഞങ്ങൾ ഇതിനകം പരിശോധിച്ചു ആ എക്സ്പ്രെഷനിലേക്ക് മടങ്ങുക എനിക്ക് KI യെ സിഗ്മ ys എന്ന് 2 പൈ ലാംഡയുടെ അല്ലെങ്കിൽ 2 പൈ ലാംഡയുടെ ഹോൾ പവർ ഹാഫ് കൊണ്ട് ഗുണിക്കാം നിങ്ങൾ KI ക്ക് ഉള്ള ഈ എക്സ്പ്രെഷൻ മുകളിലുള്ള സമവാക്യത്തിൽ പകരം വയ്ക്കുകയും ലളിതമാക്കുകയും ചെയ്യുക നമ്മൾ ശരിക്കും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഡെൽറ്റ എന്ന് കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഉള്ളത് എനിക്ക് സിഗ്മ ys ഡെൽറ്റ ക്ക് തുല്യമാണ് ഇന്റഗ്രൽ 0 മുതൽ ലാംഡ 0 വരെ സിഗ്മ ys 2 പൈ ലാംഡയുടെ ഹോൾ പവർ ഹാഫ് നെ 2 പൈ x dx ന്റെ റൂട്ട് കൊണ്ട് ഹരിക്കുന്നു ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വളരെ ലളിതമാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ ഇത് സമന്വയിപ്പിക്കുമ്പോൾ ഇത് 2 പൈ സിഗ്മ ys സ്ക്വയർ റൂട്ട് ആയി 2 പൈ യുടെ സ്ക്വയർ റൂട്ട് കൊണ്ട് ഹരിക്കുന്നു ലാംഡയുടെ x ന്റെ 2 മടങ്ങ് റൂട്ട് കൊണ്ട് 0 മുതൽ ലാംഡ വരെ ഗുണിക്കുക അതിനാൽ ഈ പരിധികൾക്ക് പകരമാവുകയും ലളിതവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ഇത് 2 സിഗ്മ ys ലാംഡയായി ലഭിക്കും ഞങ്ങൾക്ക് ഇതിനകം സിഗ്മ ys ലാംഡ ഇവിടെയുണ്ട് അതിനാൽ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സിഗ്മ ys ഡെൽറ്റ സിഗ്മ ys ലാംഡയ്ക്ക് തുല്യമാണ് അതിനാൽ ഇത് ലാംഡയ്ക്ക് തുല്യമായ അന്തിമ എക്സ്പ്രെഷൻ നൽകുന്നു അതിനാൽ നിങ്ങൾ ശരിക്കും നോക്കുന്നത് നിങ്ങൾ ലളിതമായ കണക്കുകൂട്ടലിനെ അടിസ്ഥാനമാക്കി ലാംഡയെ കണക്കാക്കി നിങ്ങൾ യഥാർത്ഥ പ്ലാസ്റ്റിക് സോൺ കണ്ടെത്താൻ കാരണം വിതരണം വളരെ വലുതാണ് വാസ്തവത്തിൽ അത് ലെങ്തിന്റെ ഇരട്ടിയാണ് നമുക്ക് പ്ലാസ്റ്റിക് സോൺ വലുപ്പത്തിനായുള്ള എക്സ്പ്രഷനുകളും ഉണ്ട് അതിനാൽ rp മാറുന്നു rp എന്നത് 2 ഡെൽറ്റയ്ക്ക് തുല്യമാണ് അത് 1 ബൈ പൈ KI സിഗ്മ ys ഹോൾ സ്ക്വാർഡ് ആണ് എന്താണ് ഇഫക്ടിവ് ക്രാക്ക് ലെങ്ത് ഇർവിന്റെ സമീപനത്തിൽ നിന്ന് ഇഫക്ടിവ് ക്രാക്ക് ലെങ്ത് എ പ്ലസ് ഡെൽറ്റയായി കണക്കാക്കുന്നു ഡെൽറ്റയെ 1 ബൈ 2 പൈ യെ KI ഗുണിച്ച് സിഗ്മ ys ഹോൾ സ്ക്വാർഡ് 1 by 2pi KI sigma sigma ys whole squared ആണ് നോക്കൂ വാസ്തവത്തിൽ ഇവ മോഡലുകളാണ് ഞാൻ ഡഗ്ഡെയ്ലിന്റെ കണക്കുകൂട്ടലിലേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് സോണിന്റെ മുഴുവൻ ലെങ്തും ഫലപ്രദമായ ക്രാക്ക് ലെങ്ത് ആയി അദ്ദേഹം എടുക്കും അതുകൊണ്ടാണ് ഇവയെല്ലാം സിദ്ധാന്തങ്ങളല്ലെന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ അവ ഏകദേശ കണക്കുകൾ തൃപ്തിപ്പെടുത്തുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾക്ക് ബാധകമായ മോഡലുകളാണ് കൂടാതെ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് EPFMലേക്ക് പോകുമ്പോൾ ഡെൽറ്റയ്ക്ക് വ്യത്യസ്തമായ പ്രതീകാത്മക പ്രാതിനിധ്യം ഉണ്ടെന്നും അത് ക്രാക്ക് ലെങ്ത് വിപുലീകരിക്കുന്നതിനേക്കാൾ CTOD യെ ആണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് ആണ് പരിശോധിച്ചത് ഇപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പ്ലെയിൻ സ്ട്രെയിന്റെ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് സോണിന്റെ നീളം കണക്കാക്കും എന്ന് ഇവിടെ വീണ്ടും നിങ്ങൾ ലളിതമായ മാതൃകയിലേക്ക് നോക്കുക നിങ്ങൾ ലാംഡ ലെങ്ത് കണ്ടെത്തണം നമ്മൾ എന്താണ് ചെയ്തത് എപ്പോൾ ആണോ nyu 1 ബൈ 3 വരെ തുല്യമാകുന്നത് അപ്പോൾ ക്രാക്ക് ടിപ്പിലെ സ്ട്രെസ് 3 മടങ്ങ് സിഗ്മ ys ആണ് ഈ കണക്കുകൂട്ടൽ നടത്തുമ്പോൾ ക്രാക്ക് ടിപ്പ് മൂർച്ഛിക്കുന്നത് നമ്മൾ അവഗണിച്ചു വാസ്തവത്തിൽ നിങ്ങൾ പ്ലാസ്റ്റിക് സോൺ കറക്ഷൻ നോക്കുമ്പോൾ ക്രാക്ക് ടിപ്പിന്റെ മൂർച്ച നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് അത് അവഗണിക്കാൻ കഴിയില്ല അതിനാൽ നമ്മൾ എന്തുചെയ്യും എന്നു വച്ചാൽ മൂർച്ച ഇല്ലാതെ നമുക്ക് എന്ത് ഫലമാണ് ലഭിക്കുക മൂർച്ചയില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണ് പരിഷ്കരിക്കേണ്ടത് ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതാണെന്ന് കണക്കിലെടുത്ത് നിങ്ങൾ ഇത് 3 സിഗ്മ ys ആയി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് KI 2 പൈ ലാംഡയുടെ റൂട്ട് 3 തവണ സിഗ്മ ys ന് തുല്യമായി വിഭജിക്കുന്നു അതിനാൽ ലാംഡ 1 ബൈ 18 പൈ KI സിഗ്മ ys ഹോൾ സ്ക്വാർഡ് ആകുന്നു നോക്കൂ ഇത് ശരിയായിരിക്കില്ല കാരണം ചില മികച്ച വശങ്ങൾ നോക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നുവെന്ന് പറയുന്നു ക്രാക്ക് ലെങ്ത്ന്റെ മോഡിഫിക്കേഷൻ ഇൻക്രിമെന്റൽ എമൌണ്ട് വഴി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഈ പ്രക്രിയയിൽ ക്രാക്ക് ടിപ്പിന്റെ മൂർച്ച കൂട്ടുന്നത് പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് മൂല്യങ്ങൾ ലഭിക്കും അത് ശരിയായ സമീപനമല്ല പ്ലെയിൻ സ്ട്രെയിനിൽ മൂർച്ചയില്ലാത്തപ്പോൾ സിഗ്മ y മാക്സിമം സ്ട്രെസ് സിഗ്മ ys sigma y maximum stress sigma ysന്റെ 3 മടങ്ങ് മൂല്യത്തിൽ എത്തുന്നു മൂർച്ചയില്ലാത്തതിനാൽ ഇത് കർശനമായി ശരിയല്ല ഇർവിൻ ഇത് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ വാദം ഇത് ഇപ്പോൾ 3 സിഗ്മ ys അല്ല എന്നായിരുന്നു എന്തൊക്കെയാണ് ഘടകങ്ങൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ക്രാക്ക് ടിപ്പ് മൂർച്ചയില്ലാതെ ആകുകയും ടിപ്പ് ഒരു സ്വതന്ത്ര ഉപരിതലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ ഇത് ഇതിനകം പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത്കുറിച്ചിരുന്നു അതിനാൽ ക്രാക്ക് ടിപ്പിൽ നിങ്ങൾക്ക് സിഗ്മ xx 0 ആണ് അതിനാൽ സിഗ്മ xx സിഗ്മ yy യ്ക്ക് തുല്യമല്ല സിഗ്മ xx ന്റെ പ്രകാശനത്തിന്റെ ഫലം ക്രാക്ക് ടിപ്പിനപ്പുറം x ആക്സിസ്സിൽ കുറച്ച് ദൂരം അനുഭവപ്പെടുന്നു അതിനാൽ നിങ്ങൾ യിൽഡ് ക്രൈറ്റീരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം സ്ട്രെസ് യിൽഡിങ്ങിനനുസരിച്ചുള്ള സ്ട്രെസ്ന്റെ മൂല്യം 3 സിഗ്മ ys ആയിരിക്കില്ല അതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും ചില എസ്റ്റിമേറ്റുകൾ ചെയ്യേണ്ടതുണ്ട് ഇർവിൻ ആ എസ്റ്റിമേറ്റ് നൽകി അദ്ദേഹം ചെയ്തത് ഫൈയില്യൂർ സ്ട്രെസ് 2 റൂട്ട് 2 സിഗ്മ ys ന്റെ സ്ക്വയർ റൂട്ടിനടുത്താണ് അത് ലളിതമാക്കാനും 3 സിഗ്മ ys ന്റെ സ്ക്വയർ റൂട്ടായി കണക്കാക്കാനും കഴിയും അതിനാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് പറയുന്നതെന്ന് കാണുകയാണെങ്കിൽ ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളപ്പോൾ നിങ്ങളുടെ ലളിതമായ കണക്കുകൂട്ടലുകൾ കാണിക്കുന്നത് സിഗ്മy സിഗ്മys sigma y sigma ys ന്റെ 3 മടങ്ങ് ആയിരിക്കും ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ അത് റൂട്ട് 3 തവണ സിഗ്മ ys ആയി പരിഷ്കരിക്കേണ്ടതുണ്ട് ഇതൊരു സ്വീകാര്യമായ പരിശീലനമാണ് ഫ്രാക്ചർ മെക്കാനിക്സിലെ മറ്റ് പല ചർച്ചകളിലും നമ്മൾ ഈ മൂല്യം ഉപയോഗിക്കും അതിനാൽ എനിക്ക് KI ബൈ റൂട്ട് 2 പൈ ലാംഡ 3 സിഗ്മ ys ന്റെ റൂട്ട് ആയി ലഭിക്കുന്നു 3 സിഗ്മ ys ന്റെ നോക്കൂ നിങ്ങൾ ലാംഡ കണ്ടെത്തുന്ന നിമിഷംലോഡിന്റെ പുനർവിതരണം നോക്കുമ്പോൾ നമ്മൾ ഇതിനകം സ്ഥാപിച്ചത് ഡെൽറ്റയ്ക്ക് തുല്യമാണ് ലാംഡ എന്നതാണ് സമാനമായ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് പ്ലെയിൻ സ്ട്രെയിൻ ലഭിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാം പ്ലാസ്റ്റിക്ക് സോണിന്റെ വലുപ്പം എന്താണ് എന്ന് അതുപോലെഇഫക്ടിവ് ക്രാക്ക് ലെങ്ത് എന്താണ് പ്ലെയിൻ സ്ട്രെയിൻ കേസിനായുള്ള പ്ലാസ്റ്റിക് സോൺ വലുപ്പം rp തുല്യം 2 ഇരട്ടി ഡെൽറ്റയാണ് അത് 1 ബൈ 3 pi ഗുണിച്ച് KI സിഗ്മ ys ഹോൾ സ്ക്വയറിനു 1 by 3 pi KI sigma ys whole square തുല്യമാണ് അതിനാൽ ഇഫക്ടിവ് ക്രാക്ക് ലെങ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഡെൽറ്റ ലഭിക്കേണ്ടതുണ്ട് അത് 1 ബൈ 6 പൈ KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വയറും ആയിരിക്കും സ്മാൾ സ്കെയിൽ യിൽഡിങ് അപ്പ്രോക്സിമേഷൻസ് ഇപ്പോൾ നോക്കുക നമ്മൾ എന്താണ് നോക്കേണ്ടത് എന്നു വച്ചാൽ സ്മാൾ സ്കെയിൽ യിൽഡിങ് അപ്പ്രോക്സിമേഷൻസ് എന്നാൽ എന്താണ് കാരണം ഇതാണ് LEFM പ്രയോഗിക്കുന്നതിന് ഉള്ള ഉപയോഗപ്രദമാകുന്ന പ്രധാന ആശയം അതിനാൽ നിങ്ങൾ ക്രാക്ക് ടിപ്പിൽ ഉയർന്ന ലോക്കലൈസ്ഡ് യിൽഡ് പ്രകടിപ്പിക്കുന്ന മെറ്റീരിയലുകളിലേക്ക് LEFM ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മെറ്റീരിയലുകൾ സ്മാൾ സ്കെയിൽ യിൽഡിങ് അപ്പ്രോക്സിമേഷൻസ് നിറവേറ്റേണ്ടതുണ്ട് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് അതിന്റെ മൂന്ന് വശങ്ങൾ നമുക്ക് കാണാം ആദ്യത്തെ വശം പ്ലാസ്റ്റിക് സോണിന്റെ വലിപ്പം അതു പോലെതന്നെ സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോൺൽ ചുറ്റുമുള്ള സ്ട്രെസ് ഡിസ്ട്രിബൂഷൻ ഏക പാരാമീറ്റർ K സ്വഭാവ സവിശേഷതകൾ ഉള്ളതായിരിക്കും പിന്നീട് നമ്മൾ EPFM നോക്കുമ്പോൾ നമുക്ക് ഒരു സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോൺ ഉണ്ടാകും തുടർന്ന് നമുക്ക് ഒരു J ഡോമിനേറ്റഡ് സോൺ ഉണ്ട് അതിനാൽ നമുക്ക് SSY നോക്കുമ്പോൾ LEFM ന്റെ കാര്യത്തിൽ നമ്മൾ ഇതുപോലുള്ള ഒരു സാഹചര്യം നോക്കുകയാണ് ഇത് ചിത്രപരമായി പ്രതിനിധീകരിക്കുന്നു ഇതൊരു പൊതു സ്ട്രെസ് അവസ്ഥയാണെന്ന് നമുക്ക് പറയാം നമുക്ക് SSY ഉള്ളപ്പോൾ നമ്മൾ പറയുന്നത് ക്രാക്കിനു സമീപത്തായി ഉള്ള സോൺ സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോൺ ആയി അറിയപ്പെടും ഇവിടെ പ്രാധാന്യമുള്ളത് K ആണ് ഓർക്കുക ഇത് വളരെ വിപുലീകരിച്ച ചിത്രമാണ് വ്യക്തതയ്ക്കായി ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കുക സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോൺനുള്ളിൽ എനിക്കുള്ളത് ഫ്രാക്ചർ പ്രോസസ് സോൺ എന്നറിയപ്പെടുന്നു നിങ്ങൾക്കറിയാമോ ഈ ആകൃതികൾ ഫ്രീലി ട്രൊൺ ആണ് അതിൽ ഗണിതശാസ്ത്രമൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല അതിനാൽ നമുക്ക് ഇത് റെപ്രെസെൻറ്റേറ്റീവ് ഫിഗേർസ് ആയി എടുക്കാം ഒരു യഥാർത്ഥ പ്രശ്നത്തിൽ വിശദമായ കണക്കുകൂട്ടലിലൂടെ ഈ രൂപങ്ങൾ നേടേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ശരിക്കും നോക്കുന്നത് നിങ്ങൾക്ക് എല്ലായിടത്തും പ്രചാരത്തിലുള്ള ജനറൽ സ്ട്രെസ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കാം പക്ഷേ ക്രാക്ക് ടിപ്പിന് സമീപം സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോൺ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഫ്രാക്ചർ പ്രോസസ് സോൺ ഉണ്ട് ഫ്രാക്ചർ പ്രോസസ് സോൺ എന്താണെന്നും നമ്മൾ കാണും അതിനുള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക് സോൺ ഉണ്ട് വാസ്തവത്തിൽ പ്ലാസ്റ്റിക് സോൺ ഒരു മോഡ് I സാഹചര്യമുണ്ടാകുമ്പോൾ പരീക്ഷണങ്ങളിൽ കാണുന്നതിനോട് സാമ്യമുള്ള ഒരു ആകൃതി ഞാൻ നൽകി ആ എക്സ്പ്രെഷൻ ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ നമ്മൾ ശരിക്കും നോക്കുന്നത് ഇതാണ് സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സോണുകൾ വളരെ ചെറുതാണ് അതാണ് ഇവിടെ പ്രധാന കാര്യം പ്രാഥമിക സ്വാധീനം ലോക്കലൈസ്ഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷനിൽ ഇലാസ്റ്റിക് സ്ട്രെസ് ഡിസ്ട്രിബൂഷനിൽ വിവർത്തനം ചെയ്യുന്ന പ്ലാസ്റ്റിക് സോൺ റേഡിയസിനു തുല്യമാണ് വാസ്തവത്തിൽ നമ്മൾ ഇർവിന്റെ മോഡലിന്റെIrwin's model ഡെവലപ്മെൻറ് നോക്കിയപ്പോൾ ഞങ്ങൾ ഗ്രാഫ് വലത്തേക്ക് മാറ്റി അതിന് സമാനമായ ഒന്ന് ഇവിടെ പ്രസ്താവിക്കുന്നു പ്ലാസ്റ്റിക് സോൺ നിർദ്ദേശിച്ച ചെറിയ അളവിൽ ഇലാസ്റ്റിക് സ്ട്രെസ് വിതരണത്തെ രൂപഭേദം ചെയ്യുക എന്നതാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷന്റെ ഫലം മൂന്നാമത്തെ കാര്യം സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോണിനുള്ളിൽ ആണ് ആണ് പ്ലാസ്റ്റിക്ക് ഡിഫോർമിഡ് മെറ്റീരിയൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ വികലമായ വസ്തുക്കളുടെ പ്രദേശം സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോണിൽ ൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ക്രാക്ക് ലെങ്ത് എ പ്ലസ് ഡെൽറ്റയായി ശരിയാക്കിയാൽ എനിക്ക് LEFMന്റെ പരാജയ നിയമം പ്രയോഗിക്കാൻ കഴിയും വാസ്തവത്തിൽ സർഫേസ് ക്രാക്ക്കളെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ഞങ്ങൾ പരിശോധിച്ചു ഇർവിൻ ക്രാക്ക്ന്റെ ലെങ്ത് ഒരു ചെറിയ വർദ്ധനവ് ഉപയോഗിച്ച് പരിഷ്കരിച്ചു ഞാൻ ചൂണ്ടിക്കാണിച്ചു ആ ക്ലാസ്സിൽ ഞാൻ കാണിച്ച വർദ്ധനവ് 1960 ൽ ഇർവിൻ റിപ്പോർട്ട് ചെയ്തു അടുത്ത അധ്യായത്തിൽ ഇതിന്റെ മെച്ചപ്പെട്ട കണക്കുകൂട്ടൽ നമ്മൾ കാണും ഈ അധ്യായത്തിൽ ഇർവിൻ നൽകിയ ഈ എക്സ്പ്രെഷനുകൾ നാം കണ്ടു

അതിനാൽ നിങ്ങൾ കണക്കുകൂട്ടൽ നടത്തുമ്പോൾ ഈ എക്സ്പ്രെഷനുകൾ ഉപയോഗിച്ച് അത് മാറ്റിസ്ഥാപിക്കണം എന്നാൽ അത് പ്രധാനമായും പറയുന്നത് ഞാൻ ക്രാക്ക് ലെങ്ത് എ പ്ലസ് ഡെൽറ്റയായി മാറ്റുകയാണെങ്കിൽ LEFM ഇപ്പോഴും ബാധകമാണ് യിൽഡ്സ്ട്രെങ്ത് 400MPa കാൾ കുറവുള്ള മെറ്റീരിയലുകൾക്ക് സാധാരണയായി SSY ബാധകമല്ല എന്നതാണ് നിങ്ങളുടെ കൈവശമുള്ള മറ്റൊരു തംബ് റൂൾ അതിനാൽ ഹൈ സ്ട്രെങ്ത് അല്ലോയ്സിനു നിങ്ങൾ ചില നിബന്ധനകൾ ബാധകമാക്കണം 400 MPa കാൾ യിൽഡ്സ്ട്രെങ്ത് ഉള്ള അല്ലോയ്സിനു ഫ്രാക്ചർ പ്രോസസ് സോൺ എന്താണ് അതും നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ് ക്രാക്ക് ടിപ്പ് മെറ്റീരിയലിന്റെ ഒരു പ്രദേശമാണ് പരിവർത്തനത്തിന് വിധേയമാകുന്നത് നിങ്ങളുടെ ദൃശ്യവൽക്കരണത്തെ സഹായിക്കുന്നതിന് ഈ ചിത്രം വീണ്ടും കാണിക്കുന്നു നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടതില്ല സിംഗുലാരിറ്റി ഡോമിനേറ്റഡ് സോണിൽ ഉള്ളിൽ ആണ് ഫ്രാക്ചർ പ്രോസസ്സ് സോൺ എന്ന് നിരീക്ഷിക്കുക നിങ്ങൾ ശരിക്കും LEFM സിദ്ധാന്തം ശ്രദ്ധിച്ചാൽ ക്രിറ്റിക്കൽ സ്ട്രെസ് കണ്ടീഷൻ സ്ഥാപിക്കുന്നതിന് ആറ്റോമിക് തലത്തിൽ സംഭവിക്കുന്ന മെക്കാനിസം മനസ്സിലാക്കേണ്ട ആവശ്യം ഇല്ല ഇത്രയും പറഞ്ഞ് ഇരുന്നാലും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് നാം എത്രത്തോളം ഈ മെക്കാനിസം മനസിലാക്കുന്നുവോ അത്രയും മികച്ച രീതിയിൽ മെറ്റീരിയലുകൾക്ക് ഫ്രാക്ചറ്റിനുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാൻ കഴിയും LEFM കാഴ്ചപ്പാടിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ അത്തരം ആപ്ലിക്കേഷനുകൾക്കായി നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മെറ്റീരിയൽ മെച്ചപ്പെടുത്താൻ ഒരു ധാരണ തീർച്ചയായും നിങ്ങളെ സഹായിക്കും ആളുകൾ തീർച്ചയായും വികസിപ്പിച്ചു ചില അലോയ്കൾ ബോഡി സെൻന്റഡ് ക്യൂബിക് തരത്തിൽ നിന്ന് ഫേസ് സെൻന്റഡ് ക്യൂബിക്ക് ആയി മാറുകയും അതുവഴി കഠിനമാക്കുകയും ചെയ്യും അവർക്ക് ഉയർന്ന തലത്തിലുള്ള സ്ട്രെസ്സുകൾ നേരിടാൻ കഴിയും ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഡഗ്ഡേൽ മോഡലിന്റെ പ്രചോദനം എന്താണ് എന്ന് നോക്കൂ ഇർവിന്റെ മോഡൽ വളരെ ലളിതവും നേരെയുമായിരുന്നു മറ്റൊരു തരം മോഡലിന്റെ ആവശ്യകത ഉണ്ടായിരിക്കണം കൂടാതെ ഏത് രീതിയിലാണ് ഡഗ്ഡേൽ സമീപിച്ചത് നോക്കൂ ഒരു ഇലാസ്റ്റിക് വിശകലനം ക്രാക്ക് ടിപ്പിൽ സിംഗുലാർ സ്ട്രെസുകൾ പ്രവചിക്കുന്നു അത് തീർച്ചയായും യാഥാർഥ്യത്തിന് നിരക്കാത്തതാണ് ഒരു ചോയിസ് ഇല്ലാത്തതിനാൽ നമ്മൾ അത് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇലാസ്റ്റിക് വിശകലനം ചെയ്യാൻ വളരെ ലളിതമായിരുന്നു അതിനാൽ ഈ വശങ്ങളിൽ ചിലത് മനസ്സിലാക്കുന്നതിനായി 1960 ൽ ഡഗ്ഡെയ്ലും 1962 ൽ ബാരൻബ്ലാറ്റും ക്രാക്ക് ടിപ്പിൽ നിന്ന് വ്യാപിച്ച യിൽഡെഡ് അല്ലെങ്കിൽ കോഹെസിവ് സ്ട്രിപ്പ് സോണുകൾ എന്നറിയപ്പെടുന്നവ സ്വതന്ത്രമായി അവതരിപ്പിച്ചു അവ വളരെ ജനപ്രിയമാണ് ഫ്രാക്ചർ മെക്കാനിക്സ് ലിറ്ററേച്ചറിൽ വളരെ പ്രചാരമുള്ള മോഡലാണ് യീൽഡ് സ്ട്രിപ്പ് മോഡൽ ഇത് ഡഗ്ഡെയ്ലും ബാരൻബ്ലാറ്റും മുന്നോട്ടുവച്ചു ക്രാക്ക് ടിപ്പിന് മുമ്പായി വരാനിരിക്കുന്ന ഫ്രാക്ചർ സർഫേസുകൾ തുറക്കുന്നത് ഒരു കോഹെസിവ് സ്ട്രെസ് എതിർക്കുന്നു ഡഗ്ഡേൽ എന്താണ് ചെയ്തത് മെറ്റീരിയലിന്റെ യീൽഡ് സ്ട്രെസ്സായി അദ്ദേഹം ആ സ്ട്രെസ്നെ കണക്കിലെടുത്തു നമ്മൾ ഡഗ്ഡേൽ മോഡൽ വികസിപ്പിക്കുമ്പോൾ അദ്ദേഹം നിരവധി അനുമാനങ്ങൾ നടത്തിയതായി നമുക്ക് കാണാം പ്ലെയിൻ സ്ട്രെസ്സിനു ഇത് ബാധകമാണ് മെറ്റീരിയൽ ഇലാസ്റ്റിക്കും തികച്ചും പ്ലാസ്റ്റിക്കും അനുസരിക്കുന്നു

ഡഗ്ഡേൽ മോഡലിന്റെ പ്രചോദനം സ്ട്രെസുകൾ നോൺ സിംഗുലാർ ആണ് എന്നുള്ള അവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് കോഹെസിവ് സോണിന്റെ വിപുലീകരണം നിർണ്ണയിക്കുന്നത് അതിനാൽ ഞാൻ അഭിനന്ദിക്കുന്നത്നിങ്ങൾ തിരികെ പോയി റിവൈസ് ചെയ്യുക ഞങ്ങൾ സ്ട്രെസ് ഇന്റർസിറ്റി ഫാക്ടർ സിമെട്രിക് ലോഡിങ്ങിനു വിധേയമായ ഒരു ക്രാക്കിന്റെ ഏതു തരാം സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ ആണ് വികസിപ്പിച്ചെടുത്തത് നിങ്ങൾ എല്ലാവരും റിവൈസ് ചെയ്യുക എന്നാണു എൻ്റെ അഭിപ്രായം ഡഗ്ഡേൽ മോഡൽ ഉപയോഗിച്ചു പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത് കണ്ടെത്താൻ നമുക്ക് ആ സമീപനം എടുക്കാം നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ ആവശ്യമാണ് അത് റിവൈസ് ചെയ്ത് അടുത്ത ക്ലാസിലേക്ക് വരിക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡഗ്ഡെയ്ലിന്റേയും ബാരൻബ്ലാറ്റിന്റേയും സമീപനം തമ്മിൽ വ്യക്തമായ സാമ്യതകളുണ്ടെന്നും ഇത് ഗവേഷകരെ ബാരൻബ്ലാറ്റ് ഡഗ്ഡേൽ ക്രാക്ക് തിയറി എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചു അതും ഒരു അഭിപ്രായമാണ് ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് എന്ന് നമ്മൾ കാണേണ്ടി വരും കാരണം അവർ ഉപയോഗിച്ച ഭൌതിക അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു വേർതിരിവ് കാണേണ്ടതുണ്ട് ഡഗ്ഡെയ്ലിന്റേയും ബാരൻബ്ലാറ്റിന്റേയും ഈ രണ്ട് സമീപനങ്ങളിലും അവർ ഉപയോഗിച്ച ഭൌതിക അടിസ്ഥാനം വ്യത്യസ്തമാണ് അന്തിമഫലം സമാനമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ കഴിയില്ല രണ്ടും തുല്യമാണ് ഡഗ്ഡേൽസമീപനം മാക്രോസ്കോപ്പിക് പ്ലാസ്റ്റിറ്റി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ബാരൻബ്ലാറ്റ് മോളിക്യൂലാർ കോഹെഷൻ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് മോഡ് I മോഡ് II മോഡ് III mode I mode II mode III എന്നിവയ്ക്കായുള്ള ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് സോണിന്റെ ഏകദേശ രൂപങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു നിങ്ങൾക്ക് പ്ലാസ്റ്റിക് സോൺ ആകൃതി വൃത്താകൃതിയിലാണെന്നു മോഡ് III സാഹചര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ചില ആദ്യകാല പുസ്തകങ്ങളിൽ ചർച്ചാ ആവശ്യങ്ങൾക്കായി മോഡ് I ലോഡിങ്ങിനു പോലും ആളുകൾ ഈ വൃത്താകൃതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ശരിയല്ല നമുക്ക് ലഭിച്ച ഏകദേശ രൂപം പോലും ഒരു ഏകദേശ രൂപം മാത്രമാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ആകൃതി ലഭിക്കുന്നതിന് നിങ്ങൾ വിശദമായ കണക്കുകൂട്ടൽ നടത്തേണ്ടതിനാൽ നിങ്ങൾ ലോഡിന്റെ പുനർവിതരണം ചെയ്യണം ഇർവിന്റെIrwin's രീതിശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ക്രാക്ക് ആക്സിസിൽ പ്ലാസ്റ്റിക് സോണിന്റെ വിപുലീകരണം എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ക്രാക്ക് ലെങ്ത് പരിഷ്ക്കരിക്കേണ്ട രീതിയും അദ്ദേഹം നൽകി SSY അപ്പ്രോക്സിമേഷൻ എന്താണെന്ന് മനസിലാക്കാൻ നമ്മൾ തുടങ്ങി ഒടുവിൽ ഡഗ്ഡേൽ മോഡലിന്റെ പ്രചോദനം എന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു